പ്രഭാഷണം 20ലേക്ക് സ്വാഗതം ഇത് ബയോ റിയാക്ടറുകളെക്കുറിച്ചുള്ള എൻപിടിഇഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് മുമ്പത്തെ 2 പ്രഭാഷണങ്ങളിൽ ബയോറിയാക്ടറുകളിലെ കോശ തലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ബയോറിയാക്ഷൻ സ്റ്റോകിയോമെട്രി നോക്കിയിരുന്നു ബയോ റിയാക്ടറിലെ കോശങ്ങൾ യഥാർത്ഥ വ്യവസായ ശാലകളാണ് മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾ ഒരു പ്രശ്നം പരിഹരിച്ചു ഇപ്പോൾ മൊഡ്യൂൾ 5ൽ നമുക്ക് മുന്നോട്ട് പോകാം നമ്മൾ കോശങ്ങളിലെ ജനലുകളെ കുറിച്ചു സംസാരിക്കാൻ തുടങ്ങുന്നു നമ്മൾ പറഞ്ഞു ആദ്യം അതിനെ ഒരു കറുത്ത പെട്ടിയായി പരിഗണിക്കും തുടർന്ന് ജനലുകൾ തുറന്ന് കോശത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ ജനലുകളിലൂടെ നോക്കും അതിനാൽ കോശത്തിലേക്കുള്ള ജനലുകൾ കോശത്തിൻറെ കോശ നിലയുടെ സൂചകങ്ങളാണ് അല്ലെങ്കിൽ കോശത്തിൻറെ ഉപാപചയ നിലയുടെ സൂചകങ്ങളാണ് ഈ പദങ്ങൾ കോശ അവസ്ഥഉപാപചയ അവസ്ഥ ഊർജ്ജ അവസ്ഥ റെഡോക്സ് അവസ്ഥമുതലായവ ഇവ ഒരുതരം സരളമായ പദങ്ങളാണ് നിങ്ങൾ അവ വളരെ കർശനമായ രീതിയിൽ എടുക്കരുത് എന്താണ് സംഭവിക്കുന്നതെന്നതിന്റെ സൂചനകളാണ് ഇവ അവ പൊതുവായ പദങ്ങളാണ് അവ പൂർണ്ണമായി എന്താണെന്ന് അറിയില്ല പക്ഷേ അവ ഉപയോഗപ്രദമുള്ളവയാണ് കോശ റെഡോക്സ് അവസ്ഥ അറിയപ്പെടുന്ന ഒരു സൂചകമാണ് കോശ ഊർജ്ജ അവസ്ഥ അല്ലെങ്കിൽ കോശങ്ങളുടെ ഉപാപചയ അവസ്ഥ മറ്റൊരു സൂചകമാണ് കോശ റിഡോക്സ് അവസ്ഥ സാധാരണയായി NADH നിക്കോട്ടിനാമൈഡ് അഡെനൈൻ ഡൈൻ ന്യൂക്ലിയോടൈഡ് ഹൈഡ്രജൻ രൂപത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഈ പരിവർത്തനം വിവിധ ഉപാപചയ പ്രവർത്തനങ്ങളിൽ നടക്കുന്നു അല്ലെങ്കിൽ കോശത്തിലെ വിവിധ ഉപാപചയ പ്രതിപ്രവർത്തനങ്ങൾക്കൊപ്പം 𝑁𝐴𝐷 𝐻 ↔ 𝑁𝐴𝐷𝐻 അതിനാൽ ഇത് കുറയുന്ന ഒരു രീതിയുണ്ട് അത് കോശത്തിലെ നിരവധി പ്രധാനപ്പെട്ട ജോലികൾക്കായി ഉപയോഗിക്കുന്നു അതിനാൽ റിഡോക്സ് അനുപാതം അത് നോക്കാനുള്ള ഒരു മാർഗമായി നൽകാം കോശ ഗാഢത നിരീക്ഷിക്കാൻ NADH ഫ്ലൂറസെൻസ് ഉപയോഗിക്കാമെന്ന് നമ്മൾ ഇതിനകം കണ്ടു കാരണം NADH ഫ്ലൂറസെൻസിന്റെ തീവ്രത കോശ ഗാഢതയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയും ഇവിടെ ഇത് റെഡോക്സ് അനുപാതമാണ് NADH മൊത്തം NADH പൂളിനാൽ വിഭജിച്ചിരിക്കുന്നു അതിൽ NADഉം NADH ഉം അടങ്ങിയിരിക്കുന്നു ഇത് റെഡോക്സ് അനുപാതമാണ് അതുപോലെ ചില സാഹചര്യങ്ങളിൽ N A D H മറ്റൊരു പ്രധാന തന്മാത്രയായ ഫ്ലാവിൻ അഡെനൈൻ ഡൈൻ ന്യൂക്ലിയോടൈഡിലേക്കും മാറി റിഡോക്സ് അനുപാതമായി കണക്കാക്കപ്പെടുന്നു ഊർജ്ജ നിലയെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചുകൂടി നേരെയായി പോകുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഊർജ്ജം നിർമ്മിച്ചതാണെന്ന് അല്ലെങ്കിൽ എടിപി ആണ് കോശത്തിന്റെ എനർജി നാണയം അഡെനോസിൻ ട്രൈഫോസ്ഫേറ്റ് നിർമ്മിക്കുന്നത് അഡെനോസിൻ ഡിഫോസ്ഫേറ്റിന്റെ ADP ഫോപ്സ്ഫോറിലേഷനിലൂടെയാണ് അതിനാൽ എടിപി അധികം എഡിപി എന്ന അനുപാതം ചിലപ്പോൾ എഎംപി യും ഇവിടെ ചേർക്കുന്നു പക്ഷേ നമുക്ക് ഇവ രണ്ടും നോക്കാം കോശ ഊർജ്ജ നിലയെ സൂചിപ്പിക്കുന്നതിന് എടിപിയെ എറ്റിപി അധികം എഡിപി കൊണ്ട് ഹരിക്കുന്നു അതിനാൽ കോശങ്ങൾക്കുള്ളിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇവയിൽ ധാരാളം കണക്കുകൾ നടക്കുന്നു ഒരു ബയോറിയാക്റ്ററിൻറെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പ്രധാനപ്പെട്ടവയുമായി പരസ്പര ബന്ധമുണ്ട് അതിനാൽ ഈ സൂചകങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക മൂല്യത്തിൽ സ്ഥിരമായി നിലനിർത്തുന്നു ബയോ റിയാക്ടറിലെ കോശങ്ങൾക്ക് നന്നായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണിത് അതിനാൽ കോശങ്ങളുടെ നില കോശങ്ങളുടെ തലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയാൽ ചിലപ്പോൾ എറ്റിപി ഹരണം എടിപി പോലും കോശ ഊർജ്ജ സ്റ്റാറ്റസായി കണക്കാക്കുന്നു ഇത് നിർവ്വചിക്കുന്നതിന് വിവിധ മാർഗ്ഗങ്ങളുണ്ട് അവയിൽ ചിലത് ഞാൻ നിങ്ങൾക്ക് നൽകി ഒരാൾ മനസിലാക്കേണ്ടത് വളരെയധികം ഉപാപചയ പ്രക്രിയകൾ മുകളിൽ പറഞ്ഞവയിൽ നടക്കുന്നു എന്നതാണ് അതിനാൽ റെഡോക്സ് നിലയിലേക്ക് പലതും നല്കുന്നു പലതും ഊർജ്ജ നിലയിലേക്ക് നല്കുന്നു നിങ്ങൾക്കറിയാമോ അത്തരം അവ്യക്തമായ രീതിയിൽ ഇത് വ്യാഖ്യാനിക്കുമ്പോൾ ഇത് ഒരു സൂചകമാണ് കുറിപ്പുകളിൽ നൽകിയിട്ടുള്ള ഈ പേപ്പർ കാണുക ഇത് നമ്പർ 30 N A D H കൾച്ചർ ഫ്ലൂറസെൻസ് രചയിതാക്കൾ സ്കീപ്പർ ഗെബവർ ഷുഗെർൽ എന്നിവരാണ് NADH കൾച്ചർ ഫ്ലൂറസെൻസിനായുള്ള പ്രബന്ധമാണിത് പ്രബന്ധ ത്തിന്റെ ശീർഷകം തന്നെ ഇ കോളിയിൽ E coli കൃഷി ചെയ്യുമ്പോൾ NADH ആശ്രിത കൾച്ചർ ഫ്ലൂറസെൻസ് നിരീക്ഷിക്കുന്നു 1987 ൽ ഇത് ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗ് ജേണലിൽ പ്രസിദ്ധീകരിച്ചു ഇത് നിങ്ങൾക്ക് കൾച്ചർ ഊർജ്ജ നിലയുമായി ചില ബന്ധം നൽകുന്നു എനിക്ക് ഇവിടെ ഒരു പേപ്പർ ഉണ്ട് ഇത് എങ്ങനെയാണ് ഊർജ്ജം NADH സ്റ്റാറ്റസ് ഉപയോഗിച്ച് ചെയ്യുന്നത് എന്ന് ഞാൻ ചുരുക്കി പറയാം സംഗ്രഹം വളരെ ചുരുക്കമായി വായിക്കുക വിവിധ ഇ coli കൃഷി പ്രക്രിയകൾ ബാച്ച് തുടർച്ചയായ കൃഷി ഇളക്കിയ ടാങ്ക് റിയാക്ടറുകൾ അല്ലെങ്കിൽ ബബിൾ കോളം റിയാക്ടറുകൾ എന്നിവയിൽ എൻഎഡിഎച്ച് ആശ്രിത കൾച്ചർ ഫ്ലൂറസെൻസ് നിരീക്ഷിച്ചു ജനിതകമാറ്റം വരുത്തിയ ഇ coli ഉൾപ്പെടെ ഇ coli വിവിധ ഇനങ്ങൾ ഉപയോഗിച്ചു ഫ്ലൂറസെൻസ് സൂചകത്തിൻറെ അളവ് ചില വ്യവസ്ഥകളിൽ ബയോമാസ് കണക്കാക്കാൻ ഉപയോഗിക്കുന്നു ഇത് നമ്മൾ ഇതിനകം കണ്ടു കോശങ്ങളുടെ ഉപാപചയ നിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് കൾച്ചർ ഫ്ലൂറസെൻസിന്റെ നിരീക്ഷണം ഉപയോഗപ്രദമാണ് കോശങ്ങളുടെ സ്വാധീനം വ്യത്യസ്ത സബ്സ്ട്രേട് ഗ്ലൂക്കോസ് ഓക്സിജൻ എന്നിവയിൽ എങ്ങിനെയെന്ന് പഠിച്ചു കൃത്രിമവും സങ്കീർണ്ണവുമായ മീഡിയകളിലെ അളവുകൾ നടത്തി ഓരോ മീഡിയയിലെയും ഘടനയുടെ സ്വാധീനം അന്വേഷിച്ചു കൃഷി നിയന്ത്രണത്തിനായി ഒരു പതിവ് സെൻസറായി ഒരു മൈക്രോഫ്ലൂറിമീറ്റർ ഉപയോഗിക്കുകയും കോശങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഉൾക്കാഴ്ച കിട്ടുകയും ചെയ്തു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കണക്ക് ബയോമാസ് Vs സമയം പോയിന്റുകൾ പരീക്ഷണാത്മക പോയിന്റുകളാണ് കൂടാതെ കൾച്ചർ ഫ്ലൂറസെൻസാണ് നൽകുന്നത് നിങ്ങൾ ഇവിടെ വളരെ നല്ല ബന്ധം കാണുന്നു കോശ ഗാഢതയുടെ അളവുകോലായിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ബയോമാസ് അല്ലെങ്കിൽ കോശ ഗാഢത VS സമയം ഇതിന് 2 രീതികളുണ്ട് ഒന്ന് പരമ്പരാഗത ഒ ഡി രീതി മറ്റൊന്ന് കൾച്ചർ ഫ്ലൂറസെൻസ് രീതി ഇത് പല സാഹചര്യങ്ങളിലും ശരിയായി വരും ചില സാഹചര്യത്തിൽ യോജിക്കില്ല അതായത് ബബിൾ കോളം വ്യവസ്ഥകളിൽ ഇത് ഒരു ഇളക്കിയ റിയാക്ടറാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല അതേസമയം ബബിൾ കോളം ആണെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകാം ഇത് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിലേക്ക് നയിക്കുന്നു അതിനാൽ ബബിൾ കോളം കൾച്ചർ ഫ്ലൂറസെൻസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം കുമിളകൾ തടസ്സപ്പെടുത്തും പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഈ പ്രബന്ധത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇവിടെ നിങ്ങൾ ഈ ചിത്രം കാണുക ഈ ചിത്രം കൾച്ചർ ഫ്ലൂറസെൻസീൻറെ vs സമയമാണ് ഓക്സിജൻ ഉപയോഗിക്കുമ്പോൾ ഫ്ലൂറസെൻസ് ഒരു നിശ്ചിത നിലയിലായിരുന്നു നൈട്രജൻ അവതരിപ്പിക്കുമ്പോൾ നിമിഷങ്ങൾക്കകം ഒരു നിശ്ചിത തലത്തിൽ കൾച്ചർ ഫ്ലൂറസെൻസ് കിട്ടും കൽച്ചറിന്റെ ഫ്ലൂറസെൻസ് ഉയരുന്നു അതായത് വായുരഹിത നില ഉയരുന്നു നിങ്ങൾ നൈട്രജൻ ഉപയോഗിക്കുമ്പോൾ കോശങ്ങൾ വായുരഹിതമാവുന്നു കാരണം ഓക്സിജൻ അന്തിമ ഇലക്ട്രോൺ സ്വീകർത്താക്കളായി ലഭ്യമല്ല അതിനാൽ ഒരു എയറോബിക് അവസ്ഥയിലുള്ള കൾച്ചർ ഫ്ലൂറസെൻസിനേക്കാൾ വളരെ കൂടുതലാണ് ഒരു എനേറോബിക് അവസ്ഥയിലുള്ള കൾച്ചർ ഫ്ലൂറസെൻസ് കാരണം അവിടെ കൂടുതൽ എൻഎഡിഎച്ച് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാംഅത്കൊണ്ട് ഇത് കോശങ്ങളുടെ എയറോബിക് അവസ്ഥയെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു ഓക്സിജൻ വീണ്ടും കൊടുക്കുമ്പോഴോ വായു വീണ്ടും കൊടുക്കുമ്പോഴോ അത് യഥാർത്ഥ നിലയിലേക്ക് മടങ്ങുന്നു അതിനാൽ കോശങ്ങൾക്കുളിൽ എന്താണ് സംഭവിക്കുന്നതെന്നതിന്റെ നല്ല സൂചനയാണിത് കൽച്ചറിന്റെ ഫ്ലൂറസെൻസ് അളക്കുന്നതിലൂടെ അത് മനസ്സിലാകും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ പ്രബന്ധം വായിക്കാം ഈ പ്രഭാഷണത്തിന്റെ ഉദ്ദേശ്യങ്ങൾക്കായി ഇത് മതിയായതാണെന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ കുറച്ച് മുമ്പ് ചെയ്ത നമ്മുടെ ചില ജോലികളെക്കുറിച്ച് ഞാൻ സംസാരിക്കട്ടെ പക്ഷേ ഇതും അതേ നിലയിലുള്ളവയാണ് അതായത് കോശത്തിനുള്ളിലെ പിഎച്ചിന്റെ അളവ് ഇത് കോശങ്ങൾക്കുള്ളിലെ പിഎച്ച് ആണെന്ന് നിങ്ങൾക്കറിയാം ഇത് മീഡിയത്തിന്റെ പിഎച്ചിൽ നിന്ന് വ്യത്യസ്തമാണ് മീഡിയത്തിന്റെ പിഎച്ച് ആസിഡ് ബേസ് കൂട്ടിച്ചേർക്കലുകൾ കാരണം മുകളിലേക്കും താഴേക്കും പോകുന്നു നമ്മൾ പറഞ്ഞു മികച്ച ബയോറിയാക്റ്റർ പ്രകടനത്തിനും മറ്റും പിഎച്ച് മികച്ച മൂല്യത്തിൽ നിയന്ത്രിക്കേണ്ടതുണ്ട് കോശങ്ങൾക്കുള്ളിലെ പി എച്ച് കോശങ്ങളുടെ ഊർജ്ജ നിലയുമായി ഒരു പരിധിവരെ ബന്ധപ്പെട്ടിരിക്കാം കാരണം മിച്ചലിന്റെ ഒരു സിദ്ധാന്തം ഉണ്ട് വാസ്തവത്തിൽ ഈ സിദ്ധാന്തത്തിന് പീറ്റർ മിച്ചൽ നൊബേൽ സമ്മാനം നേടി ഇത് പ്രധാനമായും പറയുന്നത് ഒരു പാട കേടുപാടുകൾ സംഭവിക്കാത്ത പാടയിൽ ഉടനീളം ഒരു ഹൈഡ്രജൻ അയോൺ ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ അത് എറ്റിപിയിൽ നിന്ന് എടിപി രൂപപ്പെടാനുള്ള ഊർജ്ജം നൽകുന്നു അതിനാൽ ചില അർത്ഥത്തിൽ നമുക്ക് കോശത്തിന്റെ ഊർജ്ജ നില കോശത്തിനുള്ളിലെ പിഎച്ച് നിലയുമായി ബന്ധിപ്പിക്കാൻ കഴിയും കോശത്തിനുള്ളിൽ കയറുന്നതിലൂടെ അവയുടെ പി എച്ച് സൂചിപ്പിക്കുന്ന ചില ഫ്ലൂറസെന്റ് ചായങ്ങളുണ്ട് പക്ഷേ നമ്മൾക്ക് അവ ശരിക്കും ഉപയോഗിക്കാൻ കഴിയില്ല കാരണം ആ ചായങ്ങൾ ചോർന്നുപോകാനുള്ള സാധ്യത ഉണ്ട് BCECF - AM അത്തരമൊരു ചായമാണ് തീർച്ചയായും ഇത് ചില വിശദാംശങ്ങളാണ് അത് ചിലർക്ക് താൽപ്പര്യമുണ്ടാകാം അതിനാലാണ് ഞാൻ ഇത് ഹ്രസ്വമായി പരാമർശിക്കുന്നത് ഈ ചായങ്ങൾ പുറത്തേക്ക് ഒഴുകും അത്കൊണ്ട് നമ്മൾ 9 അമിനോഅക്രിഡിൻ എന്ന ചായം ഉപയോഗിക്കുന്നു ഇത് ഒരു ദുർബലമായ ക്ഷാരമാണ് അതിന്റെ വിതരണം എക്സ്ട്രാ സെല്ലുലാർ ഇൻട്രാസെല്ലുലാർ പി എച്ച് എന്നിവ തമ്മിലുള്ള വ്യത്യാസത്തെ ആശ്രയിച്ചിരിക്കുന്നു ബാക്ടീരിയ പോലുള്ള താഴ്ന്ന ജീവികളിൽ പ്ലാസ്മ മെംബറേൻ കുറുകെയാണ് ഈ പ്രക്രിയ നടക്കുന്നത് അത്കൊണ്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ചെയ്തത് നമ്മൾ ഒരു ബയോറിയാക്ടറിൽ തുടർച്ചയായി തൽസമയമായി ഇൻട്രാ സെല്ലുലാർ പിഎച്ച് അളക്കൽ രീതി വികസിപ്പിച്ചെടുത്തതാണ് തുടർന്ന് ഇൻട്രാ സെല്ലുലാർ പിഎച്ച് ഉപയോഗിച്ച് ഒരു പ്രത്യേക ഇൻട്രാസെല്ലുലാർ പിഎച്ചിൽ കോശങ്ങൾ വളർത്താൻ നമ്മൾ ഉപയോഗിച്ചു ഇത് ഊർജ്ജ നിലയുടെ സൂചകമാണ് വ്യത്യസ്ത ഇൻട്രാസെല്ലുലാർ പിഎച്ച് അളവ് പഠിച്ചതിന് ശേഷം കോശത്തിലെ വ്യത്യസ്ത ഉപാപചയ അവസ്ഥകളെ സൂചിപ്പിക്കുന്നു അതായത് നമ്മൾ ചെയ്തത് ഫ്ലൂറസെൻസിലൂടെ ഇൻട്രാസെല്ലുലാർ പി എച്ച് അളന്നു ഗ്ലൂക്കോസ് കൂട്ടിച്ചേർക്കലിന് സബ്സ്ട്രെടിന്റെ കൂട്ടിച്ചേർക്കലിന് ഇൻട്രാസെല്ലുലാർ പിഎച്ച് പരിഷ്കരിക്കാനാകുമെന്ന് നമ്മൾ കണ്ടെത്തി അതിനാൽ ഗ്ലൂക്കോസ് കൂട്ടിച്ചേർക്കലുകൾ അങ്ങനെ ചെയ്തു അപ്പോൾ ഇൻട്രാസെല്ലുലാർ പി എച്ച് അടിസ്ഥാന നിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ഉയർന്ന നിലയിൽ ക്ഷമിക്കണം ഊർജ്ജ നിലയിൽ എത്തി നമ്മൾ അത് ചെയ്യുമ്പോൾ വായുരഹിത ഉൽപന്ന രൂപീകരണം ഏകദേശം 4 മടങ്ങ് കുറയ്ക്കാൻ കഴിയും അതായത് ഇത് ഒരു എയറോബിക് വളർച്ചയാണെങ്കിൽ അനോറോബിക് വളർച്ചയിൽ കോശത്തിൻറെ വിളവിന്റെ കാര്യത്തിലും മറ്റും ഫലങ്ങൾ വളരെ കുറവാണ് അത്കൊണ്ട് നമ്മൾക്ക് ഇത് കൂടുതൽ നന്നായി ചെയ്യാൻ കഴിഞ്ഞു കൂടാതെ വായുരഹിത ഉൽപന്ന ഉൽപാദനം കുറയ്ക്കാനും കഴിഞ്ഞു ഇൻട്രാ സെല്ലുലാർ പിഎച്ചിനെക്കുറിച്ച് കുറച്ച് പ്രബന്ധങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഈ കോഴ്സിന്റെ ആമുഖ സ്വഭാവം കാരണം ഞാൻ അവയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ 31ൽ നൽകിയിട്ടുള്ള ഈ 2 പ്രബന്ധങ്ങൾ പരിശോധിക്കാനും ഇൻട്രാ സെല്ലുലാർ പിഎച്ചി നെക്കുറിച്ച്കൂടുതൽ അറിയാനും കഴിയും നിന്ന് മുന്നോട്ട് പോകാം അതിനാൽ നിയന്ത്രണം മുകളിലുള്ള ചിത്രം ഉപയോഗിച്ച് വിശദീകരിക്കാം ഫ്ലൂറസെൻസ് ഉപയോഗിച്ചാണ് ഇൻട്രാസെല്ലുലാർ പി എച്ച് നിയന്ത്രിച്ചത് ഇത് ഒരു പിഎച്ച് അളക്കുന്ന ഉപകരണം അല്ല pH ഉപകരണം മീഡിയത്തിന്റെ pH മാത്രമേ അളക്കുകയുള്ളൂ തുടർന്ന് അത് പ്രക്ഷേപണം ചെയ്യുക ഗ്ലൂക്കോസ് ഫീഡ് നൽകേണ്ടതുണ്ടോ എന്നും അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ഫീഡ് നിരക്ക് നിർണ്ണയിക്കുന്നതും മറ്റും കൺട്രോളറാണ് അതിനാൽ അത് കൃത്രിമ വേരിയബിളായി മാറി ഒരു നിശ്ചിത ഘട്ടത്തിൽ ഇൻട്രാസെല്ലുലാർ പി എച്ച് നിലനിർത്താനും വായുരഹിത ഉൽപ്പന്ന രൂപീകരണം കുറയ്ക്കാനും കഴിഞ്ഞു അതിനാൽ ഇത് മുഴുവൻ കാര്യങ്ങളുടെയും നിയന്ത്രണ സ്കീമാറ്റിക് ആണ് ഇപ്പോൾ കോശത്തിനുള്ളിൽ ജാലകങ്ങൾ വാതിലുകൾ മുതലായവയിലൂടെ നോക്കാം കോശത്തിന്റെ ഉള്ളിലേക്ക് നോക്കുന്നതിന്റെ അത്തരം ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം അതിനെ മെറ്റബോളിക് ഫ്ലക്സ് വിശകലനം എന്ന് വിളിക്കുന്നു മെറ്റബോളിക് ഫ്ലക്സ് വിശകലനത്തിനായി നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കും അത് താല്പര്യജനകമാണ് 1990കളുടെ തുടക്കത്തിൽ ഇത് ജനപ്രിയമായി 70 മുതൽ അതായത് 1970 മുതൽ ഈ രീതി അറിയപ്പെട്ടു ലൈസിൻ ഉൽപാദനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന് മെറ്റബോളിക് ഫ്ലക്സ് വിശകലനം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് വാലിനോയും സ്റ്റെഫനോപോലോസും അവരുടെ പ്രബന്ധം പ്രസിദ്ധീകരിച്ചപ്പോൾ ഇത് ജനപ്രിയമായി മൃഗങ്ങളുടെ കോശങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയാത്ത ഒരു അമിനോ ആസിഡാണ് ലൈസിൻ അതിനാൽ പ്രോട്ടീന് ഈ അമിനോ ആസിഡ് ആവശ്യമാണ് അത്കൊണ്ട് ഭക്ഷണത്തിലൂടെയോ മറ്റ് മാർഗങ്ങളിലൂടെയോ നമ്മൾ ഇത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ലൈസിൻ ഒരു വലിയ ഉൽപ്പന്നമാണ് നിങ്ങൾക്കറിയാമോ പ്രതിവർഷം വലിയ അളവിൽ ലൈസിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നു അതിനാൽ ഇത് ഒരു വാണിജ്യപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് അതിനാൽ നിങ്ങൾ ലൈസിൻ ഉൽപാദനം അൽപ്പം മെച്ചപ്പെടുത്തുകയാണെങ്കിൽ ലാഭം ഉയർന്നതായിരിക്കാം അല്ലെങ്കിൽ വില ഇനിയും കുറയ്ക്കാൻ കഴിയും ഇതെല്ലാം 90 കളുടെ തുടക്കത്തിൽ മെറ്റബോളിക് ഫ്ലക്സ് വിശകലനത്തെ ജനപ്രിയമാക്കി മെറ്റബോളിക് ഫ്ലക്സ് വിശകലനത്തിൽ അടുത്ത 20 വർഷത്തേക്കോ ഏകദേശം 15 വർഷത്തേക്കോ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മെറ്റബോളിക് ഫ്ലക്സ് വിശകലനത്തിന്റെ തത്ത്വങ്ങൾ അടുത്തതായി നോക്കാം ഒരു ആമുഖമെന്ന നിലയിൽ കോശങ്ങൾ നൂറുകണക്കിന് പ്രതിപ്രവർത്തനങ്ങളുടെ ഫലമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു നിങ്ങൾക്ക് ഇത് ഇതിനകം അറിയാം ഉൽപന്ന വരുമാനം മെച്ചപ്പെടുത്തുന്നതിന് രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഉപാപചയ മാർഗങ്ങൾ ഉന്നം വെക്കാം ഉൽപ്പന്ന വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി ആ പാതകളെ വിശകലനം ചെയ്യുന്ന രീതി നോക്കാം ഇതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം ഉൽപ്പന്ന വരുമാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു വിശകലന രീതിയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആ രീതിയെ മെറ്റബോളിക് ഫ്ലക്സ് അനാലിസിസ് അല്ലെങ്കിൽ എംഎഫ്എ എന്ന് ചുരുക്കത്തിൽ വിളിക്കുന്നു ഉപാപചയ ഫ്ലക്സ് വിശകലനം എന്താണെന്നറിയാൻ നമുക്ക് ഇത് ആരംഭിക്കാം മുകളിലുള്ള സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതുപോലെ തുടക്കത്തിൽ കൽച്ചറിലെ എല്ലാ കോശങ്ങളെയും ഒരൊറ്റ വലിയ കോശം ഉപയോഗിച്ച് പ്രതിനിധീകരിക്കാം അതിനാൽ കോശത്തിൻറെ അളവ് ബയോറിയാക്ടറിലെ എല്ലാ കോശങ്ങളുടെയും അളവിന് തുല്യമാണ് ശേഷിക്കുന്ന വ്യാപ്തം ചാറു വ്യാപ്തമാണ് ഇത് ഒരുപക്ഷേ 10 ശതമാനത്തിൽ താഴെയാകാം നല്ല ഗാഢത സാഹചര്യങ്ങളിൽപ്പോലും ഇത് മൊത്തം വ്യാപ്തത്തിന്റെ 10 മുതൽ 20 ശതമാനം വരെ ആയിരിക്കും കൂടാതെ കോശത്തിൽ സംഭവിക്കുന്ന ഈ കൂട്ടം പ്രതിപ്രവർത്തനങ്ങൾ അതായത് സാങ്കൽപ്പിക പ്രതിപ്രവർത്തനങ്ങൾ എന്നിവ നമുക്ക് പരിഗണിക്കാം പക്ഷേ മെറ്റബോളിക് ഫ്ലക്സ് വിശകലനത്തിന്റെ തത്വങ്ങൾ മനസിലാക്കാൻ ഇവ നല്ലതാണ് S0 എന്നത് പുറത്തുള്ള സബ്സ്ട്രേറ്റാണ് അത് അകത്തേക്ക് പോയി S ലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു r0 പ്രതിപ്രവർത്തനത്തിലൂടെ S A അല്ലെങ്കിൽ B ലേക്ക് പരിവർത്തനം ചെയ്യാനാകും ഇത് r1 എന്ന നിരക്കിൽ A ലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും ഈ r 1 ഓരോ സമയത്തും മോളാണ് കൂടാതെ ഇത് സമയത്തിന് r2 മോളുകളുടെ നിരക്കിൽ B ലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു പുറത്ത് വരുന്ന B r4 എന്ന നിരക്കിൽ Dയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു r3 എന്ന നിരക്കിൽ Aൽ നിന്നും C ലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു അതും പുറത്ത് വരുന്നു അതിനാൽ ഇതാണ് ഇവിടെ സ്ഥിതി കോശത്തിൽ സംഭവിക്കുന്ന ചില പ്രധാന ഉപാപചയ മാർഗമാണിതെന്ന് നമുക്ക് പറയാം ഇതാണ് സ്ഥിതി SAB കോശത്തിനുള്ളിലാണെന്നും അതിനാൽ ഇത് ഇൻട്രാസെല്ലുലാർ മെറ്റബോളിറ്റുകളാണെന്നും അറിയുക അതേസമയം CD എന്നിവ എക്സ്ട്രാസെല്ലുലാർ മെറ്റബോളിറ്റുകളാണ് കൂടാതെ മെറ്റാബോലൈറ്റ് ഫ്ലക്സ് എന്നത് ഒരു സാധാരണ പദമാണ് എഞ്ചിനീയറിംഗ് പദമായ ഫ്ലക്സിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഫ്ലക്സ് എന്ന പദം എഞ്ചിനീയറിംഗ് ഫ്ലക്സ് എന്നത് ഒരു യൂണിറ്റ് സ്ഥലത്തു കൈമാറ്റം ചെയ്യപ്പെടുന്ന തുകയാണ് ഒരു യൂണിറ്റ് സമയത്തിന് കൈമാറ്റം ചെയ്യുന്ന ദിശയിലേക്ക് ലംബമായി നമ്മുടെ ഫ്ലക്സ് ചരിത്രപരമാണ് ഉപാപചയ പ്രവാഹത്തിന്റെ കാര്യത്തിൽ ചരിത്രപരമായി ഓരോ സമയത്തും ഉള്ള മോളുകൾ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിരക്കാണ് ഫ്ലക്സ്നെ സൂചിപ്പിക്കുന്നതിന് നമ്മൾ അത് ഉപയോഗിക്കുന്നത് തുടരും കാരണം ഇത് പല പ്രബന്ദങ്ങളിലും വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എഞ്ചിനീയറിംഗ് പദങ്ങളിലെന്നപോലെയുള്ള ഫ്ലക്സ് അല്ല ഇത് ഇത് ഒരു നിരക്കാണ് ഇത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ആയതിനാൽ r അതായത് r0 r1 r2 എന്നിവയുടെ സാധാരണ യൂണിറ്റുകൾ ഒരു ഗ്രാം സെല്ലിന് മില്ലി മോളാണ് ഇത് വ്യാപ്തത്തെയല്ല പിണ്ഡത്തെ അടിസ്ഥാനമാക്കിയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ വലിയ കോശത്തിനെ നമ്മുടെ സിസ്റ്റമായി പരിഗണിക്കാം ഇന്റർസെല്ലുലാർ മെറ്റബോളിറ്റുകളെക്കുറിച്ച് നമുക്ക് ഒരു ബാലൻസ് എഴുതാം ശ്രദ്ധിയ്ക്കുക നമ്മൾ ഇന്റർസെല്ലുലാർ മെറ്റബോളിറ്റുകളിൽ ബാലൻസുകൾ എഴുതുകയാണെങ്കിൽ കോശത്തിനെ നമ്മളുടെ സിസ്റ്റമായി നമ്മൾ കണക്കാക്കുന്നു ഇതാണ് നമ്മുടെ സിസ്റ്റം കോശത്തിനുള്ളിലെ മെറ്റബോളിറ്റുകളിൽ നമ്മൾ ബാലൻസ് എഴുതുന്നു നമുക്ക് ഇവിടെ ഈ S ഉപയോഗിച്ച് ആരംഭിക്കാം അതിനാൽ ഔട്ട്പുട്ടിന്റെ S മൈനസ് ഇൻപുട്ട് നിരക്കിന്റെ S പ്ലസ് ജനറേഷൻ നിരക്കിന്റെ S മൈനസ് ഉത്പാദന നിരക്കിൻറെ S സമം ഉപഭോഗ നിരക്ക് ശേഖരിക്കപ്പെടുന്ന S നിരക്കാണ് S0 എന്നത് S0 ആയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സിസ്റ്റം ചുറ്റുവട്ടമുള്ള ഒഴുക്കായി കണക്കാക്കുന്നു സിസ്റ്റത്തിന്റെ ചുറ്റുവട്ടത്തിനപ്പുറത്തേക്ക് ഒഴുക്ക് ഉള്ളപ്പോൾ മാത്രമേ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും പദങ്ങൾക്കും പ്രസക്തിയുള്ളൂ അതിനാൽ ഇവിടെ S0 S0 ആയി മാറിയെങ്കിൽ നമുക്ക് അതിനെ ഇൻപുട്ട് പദമായി കണക്കാക്കാം അല്ലാത്തപക്ഷം ഇത് ഒരു രാസ പ്രവർത്തന പദമായി നമ്മൾ കണക്കാക്കുന്നു അത് ഉത്പാദനത്തിലോ ഉപഭോഗത്തിലോ കണക്കാക്കാം പക്ഷേ നമ്മൾ ഇത് ഒരു തവണ മാത്രമേ കണക്കാക്കൂ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഇത് ചെയ്യുന്നതിന് നിങ്ങൾ മറ്റൊരു തന്ത്രം പിന്തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽപ്പോലും നമ്മൾക്ക് ഇത് ഇൻപുട്ടായും ഉൽപാദനമായും കണക്കാക്കാൻ കഴിയില്ല നിങ്ങൾ ഈ തന്ത്രം പിന്തുടരുകയാണെങ്കിൽ S0 S0 ആയി മാറുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒഴുക്കായി കണക്കാക്കുന്നു S0 ഉള്ളിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് ഒരു രാസപ്രവർത്തനമായി മാറുന്നു അതുപോലെ Aൽ നിന്നും C ലേക്ക് പോകുന്നു ഇത് നമ്മൾ ഒരു രാസപ്രവർത്തനമായി പരിഗണിക്കാൻ പോകുന്നു കാരണം A C ആയിത്തീർന്നു A പുറത്തേക്ക് മാറിയിട്ടില്ല പിന്നെ അതിനെ ഒഴുക്കായി കാണാം പ്രധാന കാര്യം ഇരട്ടയായി എണ്ണൽ പാടില്ല അതിനാൽ ഇവിടെ കോശത്തിലേക്ക് Sഇൻപുട്ട് ഇല്ല അത് എവിടെയും പോകുന്നില്ല അതേസമയം തീർച്ചയായും ഉൽപാദന നിരക്കും ഉപഭോഗനിരക്കും ഉണ്ട് ഉത്പാദന നിരക്ക് r0 ഉപഭോഗ നിരക്ക് 2 പ്രതിപ്രവർത്തനങ്ങളിലൂടെയാണ് അതുകൊണ്ടു അതുപോലെ A B എന്നിവയിൽ r1 എന്ന നിരക്കിൽ A ഉണ്ടാകുന്നു ഇത് r2 എന്ന നിരക്കിൽ പരിവർത്തനം ചെയ്യപ്പെടുന്നു അതിനാൽ ഉത്പാദനം r1 ഉപഭോഗം r 2 r1 മൈനസ് r2 എന്നത് dA dt ആണ് അതുപോലെ B യ്ക്കുള്ള r2 r2 ൽ രൂപം കൊള്ളുകയും r4 ൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു അതിനാൽ r2 മൈനസ് r4 എന്നത് dBdt ആണ് ഇതൊരു പ്രത്യേകതയുള്ള ആശയമാണ്നിങ്ങൾ ഇവിടെ കുറച്ച് ശ്രദ്ധിക്കണം കോശത്തിൻറെ ചുറ്റുപാടുകളെ ഒരു സംവിധാനമായി നമ്മൾ പരിഗണിക്കാൻ പോകുന്നു എക്സ്ട്രാ സെല്ലുലാർ മെറ്റബോളിറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ കോശത്തിൻറെ ചുറ്റുപാടുകളെ ഒരു സിസ്റ്റമായി പരിഗണിക്കുകയും നമ്മൾ ബാലൻസുകൾ എഴുതുകയും ചെയ്യുന്നു അതാണ് ഇവിടെ നമ്മുടെ സമീപനവുമായി പൊരുത്തപ്പെടുന്നതായി മാറുന്നത് അതിനാൽ നിങ്ങൾ എക്സ്ട്രാ സെല്ലുലാർ മെറ്റബോളിറ്റുകളിൽ ഒരു ബാലൻസ് എഴുതുകയാണെങ്കിൽ ആദ്യം Sഒന്നും ഇവിടെ നിന്ന് സിസ്റ്റത്തിൽ നിന്ന് പുറത്തുകടക്കുന്നില്ല ഇതാണ് ഇപ്പോൾ നമ്മുടെ സിസ്റ്റം അത് സിസ്റ്റത്തിൽ നിന്ന് പുറത്തുകടക്കുകയാണ് അതിനാൽ ഇൻപുട്ട് ഇല്ല പക്ഷേ ഒരു ഔട്ട്പുട്ട് ഉണ്ട് അത്കൊണ്ട് ഇവിടെ നിന്ന് വരുന്ന മൈനസ് r പൂജ്യം ഇത് സൃഷ്ടിക്കപ്പെടുന്നില്ല അത് നശിപ്പിക്കപ്പെടുന്നില്ല അതിനാൽ മൈനസ് r പൂജ്യം d S പൂജ്യം d ടു ആണ് അതുപോലെ dയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നു നിങ്ങൾക്കറിയാമോ ഉൽപാദിപ്പിക്കുന്ന പദം മാത്രം നിലവിലുണ്ട് ഇൻപുട്ട് ഇല്ല ഔട്ട്പുട്ട് ഇല്ല ക്ഷമിക്കണം ഇതാണ് മുമ്പത്തേതിന്റെ കാര്യത്തിൽ ഇൻപുട്ട് ഇല്ല ഔട്ട്പുട്ട്ടും ഇല്ല എസ് പൂജ്യത്തിന്റെ ഉൽപാദനവും ഇല്ല r പൂജ്യത്തിലൂടെ S പൂജ്യത്തിന്റെ ഉപഭോഗമുണ്ട് അത് അതിനെ മറുവശത്തേക്ക് കൊണ്ടുപോകുന്നു അതിനാൽ r പൂജ്യം ഇവിടെ ഉപഭോഗ പദമാണ് ഞാൻ ഇപ്പോൾ r പൂജ്യം 1 r 2 എന്നിവ നിരയാക്കി അതുകൊണ്ടാണ് r പൂജ്യം ആയതിവിടെ ഇത് ഇവിടെ യഥാർത്ഥത്തിൽ ഉപഭോഗ പദമാണ് അതിനാൽ മൈനസ് r പൂജ്യം d S നോട്ട് d t ഇവയിൽ നിങ്ങൾ അൽപ്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഇവിടെ C ഒരു എക്സ്ട്രാ സെല്ലുലാർ മെറ്റാബോലൈറ്റാണ് ഇപ്പോൾ അതിന്റെ സിസ്റ്റത്തിനുള്ളിൽ ഇത് r3 എന്ന നിരക്കിൽ ഉൽപാദിപ്പിക്കുന്നു അതിനാൽ ഇത് ഉല്പാദന പദമാണ് അതിനാൽ ഇവിടെ r 3 എന്നത് r I r o r c എന്നിവ പൂജ്യമാകും അതിനാൽ ഇത് പ്ലസ് r g സമം d C d t ആണ് അതുപോലെ Dയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവിടെ ഈ രാസപ്രവർത്തനത്തിലൂടെ r4 എന്ന നിരക്കിൽ ഉൽപാദിപ്പിക്കുന്നു ഇൻപുട്ടും ഔട്ട്പുട്ടും ഉപഭോഗ നിബന്ധനകളും പൂജ്യമാണ് അതിനാൽ പ്ലസ് r 4 സമം dDdt ആണ് ഇതാണ് രീതി ഒരിക്കൽ നിങ്ങൾ അത് ഉപയോഗിച്ചുകഴിഞ്ഞാൽ അത് ലളിതമാണ് പക്ഷേ നിങ്ങൾ അൽപം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്റെ മനസ്സിലുള്ള സിസ്റ്റങ്ങൾ സ്വിച്ച് ചെയ്തുകൊണ്ട് ഞാൻ അശ്രദ്ധമായി വരുത്തിയതുപോലുള്ള പിശകുകൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല അല്പം ശ്രദ്ധിക്കുക അതിനാൽ ഇപ്പോൾ ഞാൻ ഈ രീതിയിൽ എഴുതാനുള്ള കാരണംഇവിടെ ഒരു മാട്രിക്സ് വികസിക്കുന്നത് നിങ്ങൾക്ക് കാണാനാകുന്നില്ലേ ഇപ്പോൾ ഞാൻ r0 r 1s r 2s r 3s തുടങ്ങിയവ എഴുതി അതിനാൽ ഈ സമവാക്യങ്ങളുടെ ഗണം ഇതുപോലെ ഒരു ചുരുക്കിയ രൂപത്തിൽ എഴുതാം നമ്മുടെ ആദ്യ സമവാക്യത്തിൽ നമ്മൾ ഇത് ഈ ക്രമത്തിൽ എഴുതുന്നു S സീറോ SABCD നമ്മുടെ സമവാക്യം നിങ്ങൾക്കറിയാമോ നമ്മൾ മാട്രിക്സ് ഗുണനം ചെയ്യുന്ന രീതി ഓരോ വരിയിൽ ഉള്ള പദവും നിരയിലുള്ള അതാത് പദവുമായി ഗുണിച്ചതിനുശേഷം എല്ലാത്തിന്റെയും തുക കാണുകയാണ് ചെയ്യുന്നത് ഇവിടെ ആദ്യവരിയിൽ ആദ്യപദം ഒഴികെ മറ്റു പദങ്ങൾ എല്ലാം പൂജ്യമാണ് അതിനാൽ r0 എന്നത് ddt S0എന്ന് കിട്ടും ഞാൻ ഒരു കാര്യം കൂടി കാണിച്ചുതരാം r പൂജ്യം മൈനസ് r 1 മൈനസ് r 2 ബാക്കി പദങ്ങൾ പൂജ്യമാണ് S ന്റെ d d t ക്ക് തുല്യമാണ് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അതാണ് ആദ്യത്തെ സമവാക്യം r പൂജ്യം മൈനസ് r 1 മൈനസ് r 2 d S d t ആണ് ഒരു സമവാക്യം കൂടി ഇത് സമ്പൂർണ്ണതയ്ക്കാണ് തുടർന്ന് നമ്മൾ മുന്നോട്ട് പോകും ഈ ആദ്യ പദം പൂജ്യമാണ് r 1 r 2 പൂജ്യമാണ് r 1 മൈനസ് r 3 എന്നത് A യുടെ d d t ആണ് r 1 മൈനസ് r 3 A യുടെ d d t ആണ് അല്ലേ ഒരു മാട്രിക്സ് രൂപത്തിൽ പ്രാതിനിധ്യം സംഭവിക്കുന്നത് അങ്ങനെയാണ് അതിനാൽ ഈ മാട്രിക്സ് കോശത്തിലെയും എക്സ്ട്രാ സെല്ലുലാർ ലെയും ഇൻട്രാസെല്ലുലാർലെയുംവിവിധ മെറ്റബോളിറ്റുകളിൽ മെറ്റീരിയൽ ബാലൻസ് ചെയ്തുകൊണ്ട് ലഭിച്ച സമവാക്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു സമവാക്യങ്ങളുടെ എണ്ണം മെറ്റബോളിറ്റുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും നമ്മൾ കണ്ടതുപോലെ അത് ഇവിടെയുള്ള വരികളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും ഇവിടെ നമുക്ക് 1 2 3 4 5 6 ഉണ്ട് കൂടാതെ നമ്മൾക്ക് 6 മെറ്റബോളിറ്റുകളുണ്ടായിരുന്നു എസ് നോട്ട് SABCD അതിനാൽ 6 ഇത് വരികളുടെ എണ്ണത്തിന് തുല്യമാണ് നിരക്കുകളുടെ എണ്ണം നിരകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും ഇവിടെ 5 നിരക്കുകളും ഉണ്ട് r പൂജ്യം r 1 r 2 r 3 r 4 ഈ മാട്രിക്സിൽ 5 നിരകളുണ്ട് അതിനാൽ ഇതിനെ സ്റ്റോയിക്ക്യോമെട്രിക് മാട്രിക്സ് 𝑺̃ സ്റ്റോയിക്ക്യോമെട്രിക് മാട്രിക്സ് റേറ്റ് വെക്ടറുമായി ഗുണിക്കുന്നു അല്ലെങ്കിൽ റേറ്റ് മാട്രിക്സ് r എന്ന് വിളിക്കുന്ന സ്റ്റേറ്റ് വേരിയബിളിന്റെ d d t ആണ് സ്റ്റേറ്റ് വേരിയബിൾ മാട്രിക്സ് അതിനാൽ ഇത് മുഴുവൻ സമവാക്യങ്ങളുടെയും ഒതുക്കമുള്ള പ്രാതിനിധ്യമാണ് നിങ്ങൾക്ക് 100s അല്ലെങ്കിൽ 1000s സമവാക്യങ്ങൾ ഉണ്ടെങ്കിൽപ്പോലും ഇത്തരത്തിലുള്ള പ്രാതിനിധ്യം വളരെ എളുപ്പമാകും അതിനാൽ അവയെ ആദ്യം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിലേക്ക് മാറ്റുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ഒരിക്കൽ നിങ്ങൾ അവയെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിലേക്ക് മാറ്റിയാൽ നിങ്ങൾക്ക് എല്ലാത്തരം പരിഷ്കാരങ്ങളും ചെയ്യാൻ കഴിയും അതിനാൽ നമ്മൾ അതിനെ ഈ ഫോമിലേക്ക് കൊണ്ടുവന്നതിന്റെ കാരണം അതാണ് രാസപ്രവർത്തന നിരക്ക് വെക്റ്ററും x ഒരു സ്റ്റേറ്റ് വെക്റ്റർ സ്റ്റേറ്റ് വേരിയബിളുകളുടെ വെക്റ്റർ ആയിരിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മെറ്റബോളിറ്റുകൾ സ്റ്റേറ്റ് വേരിയബിളുകളാണ് Slide Time 2908 ഇത് ഒരു പ്രധാന ആശയമാണ് നമ്മൾ നേരത്തെ ഒരു കപട സ്ഥിരതയുള്ള ഏകദേശ കണക്കെടുപ്പ് നടത്തിയിരുന്നു നമുക്ക് അത് വീണ്ടും നോക്കാം ഒരു ബോൾട്ട് നിർമ്മിക്കുന്ന നിരക്കിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഓരോ 5 സെക്കൻഡിലും ഓരോ ബോൾട്ട് നിർമ്മിച്ചു ഒരു കാർ എഞ്ചിൻ ഓരോ മണിക്കൂറിലും 1 നിർമ്മിക്കുന്നു ഇത് ഓരോ 5 സെക്കൻഡിലും നിർമ്മിക്കപ്പെടുന്നു ഇത് ഓരോ മണിക്കൂറിലും നിർമ്മിക്കപ്പെടുന്നു ഒരു ബോൾട്ട് നിർമ്മിക്കാൻ 7 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് അല്ലെങ്കിൽ 4 സെക്കൻഡ് എടുത്താലും സമയത്തിലെ വ്യതിയാനം ഈ പ്രക്രിയയുടെ അസ്ഥിരമായ അവസ്ഥ അല്ലെങ്കിൽ അസ്ഥിരമായ സ്വഭാവം എഞ്ചിൻ നിർമ്മാണത്തിന്റെ സ്വഭാവത്തെ ബാധിക്കില്ല കാരണം ഈ പ്രക്രിയ വളരെ വേഗതയുള്ളതാണ് ഈ പ്രക്രിയ വളരെ മന്ദഗതിയിലാണ് നിങ്ങൾ മന്ദഗതിയിലുള്ള പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ വളരെ വേഗതയേറിയ പ്രക്രിയ യഥാർത്ഥത്തിൽ സ്ഥിരതയുള്ള അവസ്ഥയിലാണെങ്കിലും ഇല്ലെങ്കിലും സ്ഥിരതയുള്ള അവസ്ഥയിലാണെന്ന് അനുമാനിക്കാം അതാണ് കപട സ്ഥിരത നമ്മുടെ താല്പര്യം എഞ്ചിൻ നിർമ്മാണത്തിലാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ സമയം ബോൾട്ട് നിർമ്മാണത്തിന്റെ അസ്ഥിരമായ വശങ്ങൾ കുറച്ച് നിമിഷങ്ങൾ അപ്രസക്തമാണ് അതിനാൽ നമ്മുടെ താൽപ്പര്യത്തിന്റെ സമയ സ്കെയിലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബോൾട്ട് നിർമ്മാണം സ്ഥിരമായ അവസ്ഥയിലാണെന്ന് കണക്കാക്കാം ഇത് സ്ഥിരമായ അവസ്ഥയിലാണോ അല്ലയോ എന്നത് പരിഗണിക്കാതെ തന്നെ അതിനാൽ താരതമ്യം ആവശ്യമാണ് സമയ സ്കെയിലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വേഗതയേറിയ പ്രക്രിയകൾ സ്ഥിരമായ അവസ്ഥയിലാണെന്ന് അനുമാനിക്കാം ഇതിനെ സ്യൂഡോ സ്റ്റെഡി സ്റ്റേറ്റ് അപ്പ്രോക്സിമേഷൻ വിളിക്കുന്നു നമ്മൾ ഇത് വീണ്ടും സന്ദർശിക്കുന്നു ഇത് ഒരു പ്രധാന ആശയമാണ് തുടക്കത്തിൽ അൽപം ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരിക്കൽ നിങ്ങൾക്കത് ലഭിച്ചാൽ ഇത് വളരെ എളുപ്പമാകും അതുപോലെ നിങ്ങൾ ഇൻട്രാസെല്ലുലാർ മെറ്റാബോലൈറ്റ് സാന്ദ്രത മാറ്റം നോക്കുകയാണെങ്കിൽ അത് നിമിഷങ്ങൾക്കകം സംഭവിക്കുന്നു അതേസമയം വളർച്ച സാധാരണഗതിയിൽ സംഭവിക്കുന്നു കുറച്ച് മണിക്കൂറുകൾ എന്ന് നമുക്ക് പറയാം അതിനാൽ ഇത് മന്ദഗതിയിലുള്ള പ്രക്രിയയാണ് ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളർച്ച ഇൻട്രാസെല്ലുലാർ മെറ്റാബോലൈറ്റ് ഗാഢത മാറുന്നു വളർച്ചാ പ്രക്രിയകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻട്രാസെല്ലുലാർ മെറ്റബോളിറ്റുകൾ സ്ഥിരമായ അവസ്ഥയിലാണെന്ന് അനുമാനിക്കാം അതിനാൽ ഇത് സ്യൂഡോ സ്റ്റെഡി സ്റ്റേറ്റ് അപ്പ്രോക്സിമേഷൻ അവസ്ഥയാണ് ഇപ്പോൾ ഇത് നമ്മുടെ സമീപനത്തെ എങ്ങനെ ലളിതമാക്കുന്നുവെന്ന് കാണുക എല്ലാ റേറ്റ് ഡെറിവേറ്റീവുകളും ഇൻട്രാസെല്ലുലാർ മെറ്റബോളിറ്റുകളുടെ സമയ ഡെറിവേറ്റീവുകളും സ്യൂഡോ സ്റ്റെഡി സ്റ്റേറ്റ് അപ്പ്രോക്സിമേഷൻ പൂജ്യമായി സജ്ജമാക്കാൻ കഴിയും വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രക്രിയകളിൽ നമ്മൾ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ വളർച്ച ഉൽപ്പന്ന രൂപീകരണം ഒരു ബയോറിയാക്ടറുടെ കാര്യത്തിൽ തീർച്ചയായും അത്തരം പ്രക്രിയകളിൽ മാത്രമേ നമുക്ക് താൽപ്പര്യമുള്ളൂ അത്തരമൊരു സാഹചര്യത്തിൽ ഇൻട്രാസെല്ലുലാർ മെറ്റാബോലൈറ്റ് സമയത്തോടൊപ്പം പൂജ്യമാകും അല്ലെങ്കിൽ ഈ പ്രക്രിയ സ്ഥിരതയുള്ള അവസ്ഥയിലായിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇൻട്രാസെല്ലുലാർ മെറ്റബോളിറ്റുകൾ ABC എന്നിവയാണ് അവ നേരിട്ട് പൂജ്യത്തിലേക്ക് മാറ്റാം മറ്റ് നിരക്കുകൾ എക്സ്ട്രാ സെല്ലുലാർ മെറ്റബോളിറ്റുകളാണ് ഇങ്ങനെയാണെങ്കിൽ എക്സ്ട്രാസെല്ലുലാർ ഇൻട്രാസെല്ലുലാർ മെട്രിക്സുകളുമായി ബന്ധപ്പെട്ട ഈ മാട്രിക്സിനെ നമുക്ക് വിഭജിക്കാം കാരണം ഇൻട്രാ സെല്ലുലാർ മെട്രിക്സ് ഇൻട്രാ സെല്ലുലാർ മെറ്റാബോലൈറ്റ് അനുബന്ധ മെട്രിക്സുകൾ അപ്രത്യക്ഷമാകും ഞാൻ r പൂജ്യം r 3 r 4 എന്നിവ എടുത്ത് ഈ ഭാഗത്ത് നിന്ന് സ്റ്റോക്കിയോമെട്രിക് മാട്രിക്സ് എഴുതിയിട്ടുണ്ട് അത് പ്രസക്തമാണ് നമ്മൾക്ക് S നോട്ട് C D എന്നിവ നൽകാനാവില്ല ഇത് എക്സ്ട്രാ സെല്ലുലാർ ഭാഗത്തിന് വേണ്ടിയാണ് ഇൻട്രാസെല്ലുലാർ ഭാഗം ബാഹ്യകോശ ഭാഗം ഇതാണ് മൈനസ് 1 പൂജ്യം പൂജ്യം പൂജ്യം 1 പൂജ്യം പൂജ്യം 1 r നോട്ട് r 3 r 4 എന്നിവയുമായി യോജിക്കുന്നു അവ യോജിക്കുന്നു ഈ വശത്ത് S നോട്ട് C ഡി എന്നിവയുടെ ddt യോജിക്കുന്നു അതേസമയം ഇവിടെ പൂജ്യമായിരിക്കുന്ന എ ബി സി എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ഇന്റർസെല്ലുലാർ ഈ പ്രത്യേകതയിൽ നിന്ന് ഇവിടെയുള്ള മാട്രിക്സിന്റെ ABC ഭാഗങ്ങളിൽ നിന്ന് സ്റ്റോയിക്ക്യോമെട്രിക് മാട്രിക്സിന്റെ ഈ പ്രത്യേക ഭാഗത്തിൽ നിന്ന് എടുക്കാം അതിനാൽ ഞാൻ ഇതിനെ എക്സ്ട്രാ സെല്ലുലാർ മെറ്റബോളിറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു മാട്രിക്സായും ഇൻട്രാ സെല്ലുലാർ മെറ്റബോളിറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു മാട്രിക്സായും എടുക്കുന്നു നിങ്ങൾക്ക് വിശദാംശങ്ങൾ പരിശോധിച്ച് സ്വയം ബോധ്യപ്പെടുത്താൻ കഴിയും ഇതാണ് മെറ്റാബോലൈറ്റ് ഫ്ലക്സ് വിശകലനം മെറ്റാബോലൈറ്റ് ഫ്ലക്സ് വിശകലനം ഉപയോഗിച്ച് എല്ലാം ചെയ്യാൻ കഴിയും ശരിയല്ലേ ഈ സ്റ്റോകിയോമെട്രിക് മാട്രിക്സ് നമ്മൾക്ക് വിവിധ നിരക്കുകൾ നൽകുന്നു സ്റ്റോകിയോമെട്രിക് മാട്രിക്സ് ക്ഷമിക്കണം ഈ പ്രാതിനിധ്യം നമ്മൾക്ക് സ്റ്റൈക്കിയോമെട്രിക് മാട്രിക്സും വിവിധ നിരക്കുകളും ശേഖരണത്തിന്റെ നിരക്കും നൽകുന്നു അതിനാൽ എല്ലാം ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ അത്തരമൊരു പ്രാതിനിധ്യം ഉപയോഗിച്ച് ചെയ്യുന്ന പൊതുവായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് ഒരു ബയോറിയാക്ടർ വീക്ഷണകോണിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകും അത്കൊണ്ട് എക്സ്ട്രാ സെല്ലുലാർ മെറ്റാബോലൈറ്റ് നിരക്കുകളിൽ നിന്നുള്ള ഇൻട്രാ സെല്ലുലാർ മെറ്റാബോലൈറ്റ് ഫ്ലക്സ് കണക്കാക്കുന്നു മൊഡ്യൂൾ 3ൽ നമ്മൾ സംസാരിച്ച പോലെ എക്സ്ട്രാ സെല്ലുലാർ മെറ്റബോളിറ്റുകളെ അളക്കാൻ കഴിയും അതിനാൽ അവയെ അളക്കുന്നതിലൂടെ നമുക്ക് ഇൻട്രാ സെല്ലുലാർ മെറ്റാബോലൈറ്റ് ഫ്ലക്സ് കണക്കാക്കാം ശരിയല്ലേ ഉള്ളിൽ കാര്യങ്ങൾ നടക്കുന്ന നിരക്കുകൾ കോശ പാതകളിൽ ബ്രാഞ്ച് പോയിന്റ് നിയന്ത്രണം നോഡൽ കാർക്കശ്യം തിരിച്ചറിയൽ ഇതര പാതകളുടെ തിരിച്ചറിയൽ നടത്താം ഫ്ലക്സോം മെറ്റബോളോം ധാരാളം ഓംസ്കളുടെ വിശകലനം നടത്താം ഓം എന്നു വച്ചാൽസംഭവിക്കുന്ന എല്ലാറ്റിന്റെയും പൂർണ്ണ ശേഖരം ഉദാഹരണത്തിന് കോശത്തിലെ എല്ലാ ജീനുകളുടെയും ശേഖരണത്തിന്റെ പൂർണ്ണ പ്രാതിനിധ്യമാണ് ഒരു ജീനോം കോശത്തിലെ എല്ലാ ഫ്ലക്സുകളുടെയും പൂർണ്ണമായ പ്രാതിനിധ്യമാണ് ഫ്ലക്സോം ഈ സമീപനം ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് വിശകലനം ചെയ്യാൻ കഴിയും മെറ്റാബോലൈറ്റ് ഫ്ലക്സ് വിശകലനത്തിലൂടെ എന്തുചെയ്യാൻ കഴിയും എന്നതിന്റെ ഉദാഹരണങ്ങളായി നമ്മൾ ആദ്യ രണ്ടെണ്ണം മാത്രം നോക്കാൻ പോകുന്നു നമുക്ക് ആദ്യം എക്സ്ട്രാ സെല്ലുലാർ മെറ്റാബോലൈറ്റ് നിരക്കുകളിൽ നിന്നുള്ള ഇൻട്രാ സെല്ലുലാർ മെറ്റാബോലൈറ്റ് ഫ്ലക്സ് കണക്കാക്കൽ നോക്കാം നമ്മൾ നേരത്തെ കണ്ട അതേ കണക്കാണ് ഇത് S naught Sലേക്കും പിന്നെ എ ബി എന്നിവയിലേക്ക് പോകുന്നു A C B എന്നിവ D ലേക്ക് പോകുന്നു SCDഎന്നിവ എക്സ്ട്രാ സെല്ലുലാർ മെറ്റബോളിറ്റുകളാണ് SAB ഇൻട്രാ സെല്ലുലാർ മെറ്റബോളിറ്റുകൾ അതിനാൽ നമ്മൾ S നോട്ട് CDഎന്നിവ അളക്കാൻ പോകുന്നു തുടർന്ന് ഇവിടെ ഉൾപ്പെടുന്ന നിരക്കുകൾ കാണുക നമ്മൾ അത് എങ്ങനെ ചെയ്യും നമുക്കറിയാം എക്സ്ട്രാ സെല്ലുലാർ മെറ്റബോളിറ്റുകളുമായി ബന്ധപ്പെട്ട ഫോർമുലേഷൻ ഇതാണ് നമ്മൾ അത് നേരത്തെ കണ്ടിരുന്നു എക്സ്ട്രാസെല്ലുലാർ മെറ്റബോളിറ്റുകളുമായി പൊരുത്തപ്പെടുന്ന നിരക്കുകൾ ശ്രദ്ധിക്കുക ഇത് S0 C D എന്നിവയുടെ d d t ആണ് എക്സ്ട്രാ സെല്ലുലാർ മെറ്റബോളിറ്റുകളുമായി ബന്ധപ്പെട്ട സമവാക്യങ്ങൾ ഈ മാട്രിക്സ് രൂപത്തിൽ എഴുതിയിട്ടുണ്ട് ഇതാണ് ഇൻട്രാ സെല്ലുലാർ SCD എന്നിവ അളക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്കാക്കാം സമയ ഇടവേളകളിൽ നിങ്ങൾ പോയിന്റുകൾ എടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ സെല്ലുലാർ സ്ഥലത്തു S നോട്ട് C D എന്നിവയുടെ വ്യതിയാനത്തിന്റെ നിരക്ക് ലഭിക്കും S naught നിരക്ക് CD എന്നിവ അറിയുന്നതിലൂടെ നമുക്ക് ഇത് പറയാം പിന്നെ r1 r2 എന്നിവ കണക്കാക്കുന്നതിലാണ് നമ്മൾ നോക്കുന്നതിവിടെ അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഇൻട്രാ സെല്ലുലാർ മെറ്റാബോലൈറ്റ് ഫ്ലക്സ് അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ മെറ്റാബോലൈറ്റ് നിരക്കുകളിൽ നിന്നുള്ള നിരക്ക് r 0 S നോട്ട് അളവുകളിൽ നിന്ന് സബ്സ്ട്രെടിന്റെ നിരക്ക് കണക്കാക്കാം അത് ശരിയാണ് നേരിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല r 3 r 4 മെറ്റാബോലൈറ്റ് അല്ലെങ്കിൽ ഉൽപന്ന രൂപീകരണ നിരക്ക് യഥാക്രമം C D അളവുകളിൽ നിന്ന് കണക്കാക്കാം ഇൻട്രാ സെല്ലുലാർ മാട്രിക്സ് സമവാക്യത്തിന് 3 സമവാക്യങ്ങളും 5 അറിയാത്തവയുണ്ട് ശരിയല്ലേ സമവാക്യങ്ങളുടെ എണ്ണം അറിയാത്തവയുടെ എണ്ണം ഡിഗ്രീ ഓഫ് ഫ്രീഡംഅളവ് നിങ്ങൾക്കറിയാം ഈ സമവാക്യങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുന്നതിന് അറിയേണ്ട സ്വതന്ത്ര ചരങ്ങളുടെ എണ്ണമാണ് ഡിഗ്രീ ഓഫ് ഫ്രീഡം അളവ് നമുക്ക് 3 സമവാക്യങ്ങളുണ്ട് 5 എണ്ണം അറിയാത്തവയാണ് അതിനാൽ 5 മൈനസ് 3 എന്നത് 2 ആണ് അതിനാൽ r 1 r 2 എന്നിവ നിർണ്ണയിക്കാൻ 3 എക്സ്ട്രാ സെല്ലുലാർ ഫ്ലക്സുകളിൽ 2 നമുക്ക് ആവശ്യമാണ് ഇവ രണ്ടും r 3 ഉം r 4 ഉം ആണെന്ന് അറിയാം CD സാന്ദ്രതകളുടെ അളവുകൾ നമ്മൾ വളരെ അടുത്തുള്ള സമയങ്ങളിൽ എടുക്കുന്നു നമ്മൾക്ക് ഈ ഗാഢതകളുണ്ട് ഡെറിവേറ്റീവുകളായ C2 മൈനസ് C1 നെ t2 മൈനസ് t1 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഈ നിരക്കുകൾ കിട്ടും അതിനാൽ ഇതാണ് ഇവിടെയുള്ള മാട്രിക്സ് നമ്മൾ പൂജ്യമായി കണക്കാക്കിയ ഇൻട്രാ സെല്ലുലാർ മാട്രിക്സ് ഈ ഭാഗത്തെ മാത്രം r നോട്ട് r 1 r 2 ഈ ഭാഗം മാത്രം r 3 r 4 എന്നിവയുമായി യോജിക്കുന്നു അത് ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാൻ കഴിയും അതിനാൽ മൈനസ് 1 മൈനസ് 1 മൈനസ് 1 പൂജ്യം 1 പൂജ്യം പൂജ്യം പൂജ്യം 1 ഇത് r പൂജ്യം r 1 r 2 എന്നിവയുമായി യോജിക്കുന്നു അതിനാൽ നമ്മൾ അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് കൂടാതെ പൂജ്യം പൂജ്യം മൈനസ് ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഇത് r 3 r 4 എന്നിവയുമായി യോജിക്കുന്നു അതിനാൽ നമ്മൾ അവയെ പൂജ്യം പൂജ്യം പൂജ്യം എന്നിങ്ങനെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഇത് മാട്രിക്സുകൾ അടങ്ങുന്ന ഒരു സമവാക്യമാണ് നമ്മൾ ഇവ കൈമാറ്റം ചെയ്യുകയും ആദ്യത്തെ മാട്രിക്സിന്റെ ഇൻവേഴ്സ് ഉപയോഗിച്ച് ഇരുവശവും ഗുണിക്കുകയും ചെയ്യുന്നു ലീനിയർ ആൾജിബ്രയിൽ ഇത് ചെയ്യാൻ എളുപ്പമാകും അതിനാൽ ഈ പ്രഭാഷണത്തിൽ ആദ്യത്തെ തത്ത്വങ്ങളിലേക്ക് കടക്കാൻ അൽപ്പം ബുദ്ധിമുട്ടാണ് തുടർന്ന് മാട്രിക്സ് ആൾജിബ്ര പരിശോധിക്കുക പിന്നെ ഇവ നന്നായി മനസ്സിലാക്കുക അതിനാൽ ഈ മാട്രിക്സിനെ അതിന്റെ ഇൻവെർസ് കൊണ്ട് ഗുണിച്ചാൽ ഇത് ഇല്ലാതാകും ഇതിനെ അതേ ഇൻവെർസ് മാട്രിക്സ് കൊണ്ട് ഗുണിച്ചാൽ ഈ പദം നിലനിൽക്കും എന്തായാലും ഇത് പൂജ്യമാണ് അതിനാൽ ഇത് കളയാൻ പോകുന്നു നമ്മൾ ഈ സമവാക്യം മാറ്റി എല്ലാ മൈനസ് 1 കളും 1 ആയി മാറി ഈ പൂജ്യങ്ങൾ അതേപടി നിലനിൽക്കും അതിനാൽ ഇത് ഇതിന് തുല്യമാണ് അതാണ് ആദ്യ പടി എന്നിട്ട് ഈ മാട്രിക്സുമായി നമ്മൾ ഇത് മുൻകൂട്ടി ഗുണിച്ചു ക്ഷമിക്കണം ഈ മാട്രിക്സിന്റെ ഇൻവെഴ്സ് മാട്രിക്സുമായി അതിനാൽ ഇത് വിപരീതം ഒരു യൂണിറ്റി മാട്രിക്സാണ് നമ്മൾ അതിനെ നോക്കുന്നില്ല ഈ മാട്രിക്സ് ഗുണം r 3 r 4 എന്നിവയിലേക്ക് നേരിട്ട് rനോട്ട് r 1 r 2 അല്ലെങ്കിൽ r 3 r 4 r നോട്ട് r 1 r 2 എന്നിവ അളക്കുന്നത് ആവശ്യമുണ്ട് അല്ലെങ്കിൽ r 3 r 4 എന്നിവയാണ് ഇവിടെ അളക്കുന്നത് ഇവിടെ കണക്കാക്കുന്നത് CD എന്നിവയുടെ അളവുകളിൽ നിന്ന് നമുക്ക് r നോട്ട് r 1 ഉം r 2 ഉം കിട്ടും r3 പ്ലസ് r4 പിന്നെ r3യും r4ഉംഅത്കൊണ്ട് r നോട്ട് സമം r3 പ്ളസ് r4r1 സമം r3r2 സമം r4 എന്നിങ്ങനെ പോകുന്നു അതിനാൽ ഇത്തരത്തിലുള്ള ഒരു കണക്കുകൾ നടത്തുന്നതിലൂടെ അളക്കാനാകുന്ന എക്സ്ട്രാസെല്ലുലാർ നിരക്കുകളെ അടിസ്ഥാനമാക്കി നമുക്ക് നേരിട്ട് ഇൻട്രാസെല്ലുലാർ നിരക്ക് ലഭിക്കും അത് വിലയേറിയതാണ് ഇപ്പോൾ നമുക്ക് നോഡൽ റീജിഡിറ്റി ഐഡന്റിഫിക്കേഷൻ നോക്കാം 90 കളുടെ തുടക്കത്തിൽ വള്ളിനോയുടെയും സ്റ്റെഫനോപോലോസിന്റെയും സൃഷ്ടികളെക്കുറിച്ച് നമ്മൾ സംസാരിച്ച ലൈസിൻ ഉല്പാദന മെച്ചപ്പെടുത്തലിലേക്ക് പോയത് ഇതാണ് ഇത് മനസിലാക്കാൻ നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ഉപാപചയ ഫ്ലക്സ് വിശകലനം ലൈസിൻ ഉത്പാദനം ജനപ്രിയമാക്കിയ ഉദാഹരണം നമുക്ക് പരിഗണിക്കാം ഇതാണ് ഇവിടെ റഫറൻസ് നിങ്ങളുടെ റഫറൻസുകളുടെ പട്ടികയിലും ഇത് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് പോയി ഇത് പരിശോധിക്കാം സ്റ്റെഫനോപോലോസും വല്ലിനോയും 1991 നെറ്റ്വർക്ക് റീജിഡിറ്റിയും മെറ്റബോളിക് എഞ്ചിനീയറിംഗും മെറ്റബോളൈറ്റ് അധിക ഉൽപാദനത്തിൽ ഇത് സയൻസിൽ പ്രസിദ്ധീകരിച്ചു 1993 ൽ ബയോടെക്നോളജി ആന്ഡ് ബയോ എഞ്ചിനീയറിംഗിലും പ്രസിദ്ധീകരിച്ച മറ്റൊരു പ്രബന്ധമുണ്ട് അത് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൽ ലൈസിൻ അഥവാ മൈനസ് ലൈസിൻ Lysine വാർഷിക അളവിൽ ലക്ഷക്കണക്കിന് ടൺ ഉൽപാദിപ്പിക്കപ്പെടുന്നു കാരണം ഈ അമിനോആസിഡ് മൃഗകോശങ്ങൾ ഉൽപാദിപ്പിക്കുന്നില്ല പക്ഷേ ഇവ പ്രോട്ടീനുകൾക്കും മറ്റും ആവശ്യവുമാണ് അതിനാൽ അത് നൽകേണ്ടതുണ്ട് അത് തന്നെ മൈനസ് ലൈസീന്റെ വലിയ ഉൽപാദനത്തിന് കാരണമാകുന്നു ഒരു ജീവിയായ കോറിനെബാക്ടീരിയം ഗ്ലൂട്ടാമിക്കം എൽ ലൈസിൻ ഉത്പാദിപ്പിക്കുന്നു ഇത് ഉൽപാദിപ്പിക്കുമ്പോൾ അളവ് ഏകദേശം 15 ശതമാനം മാത്രമായിരുന്നു മെറ്റബോളിക് ഫ്ലക്സ് വിശകലനത്തിലൂടെ ഈ 15 ശതമാനം 3 മടങ്ങ് കൂട്ടി 50 ശതമാനത്തിലേക്ക് ഉയർത്തി നിങ്ങൾ ഇവിടെ ഇതിൻറെ ശക്തി ഇപ്പോൾ കാണുന്നു മെറ്റബോളിക് ഫ്ലക്സ് വിശകലനത്തിലൂടെയും തുടർന്നുള്ള ജനിതകമാറ്റങ്ങളിലൂടെയും 15 ശതമാനം 50 ശതമാനമായി നോക്കൂ മെറ്റബോളിക് ഫ്ലക്സ് വിശകലനം നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജീവികളെ ജനിതകമാറ്റം വരുത്തേണ്ടതുണ്ട് തുടർന്ന് ഈ സാഹചര്യത്തിൽ അത് 3 മടങ്ങ് കൂടുതൽ ഉല്പന്നം നൽകി അതിനാൽ ചില വിശദാംശങ്ങൾ ലൈസിൻ ഉൽപാദനത്തിനായി നാം താൽപ്പര്യപ്പെടേണ്ട പ്രാഥമിക പാതയാണിത് ഇത് ഗ്ലൈക്കോളിസിസ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിലേക്ക് പോകുന്നു ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് മുതൽ പൈറുവേറ്റ് വരെ എന്നിട്ട് ഈ ബ്രാഞ്ച് പോയിന്റ് ഉണ്ട് അത് പ്രധാനമാണ് ഇവിടെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് വഴി റിബുലോസ് 5 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിലേക്ക് മടങ്ങുന്നു ഇവിടെ ഫോസ്ഫോനോൽ പൈറുവേറ്റ് ഓക്സലോഅസെറ്റിക് ആസിഡിലേക്കും പിന്നീട് ലൈസിനിലേക്കും പോകുന്നു പൈറുവേറ്റിന് ലൈസിനിലേക്കും പോകാം ഇവിടെ മറ്റൊരു ബ്രാഞ്ച് പോയിന്റുണ്ട് പൈറുവേറ്റ് മുതൽ അസറ്റൈൽ കോ വരെ ഇത് എല്ലാരും തിരിച്ചറിയും ഇതാണ് ടിസിഎ ചക്രം ഇത് ഇവിടെ കുത്തിട്ട ഇട്ട സർക്കിൾ സൂചിപ്പിക്കുന്നു ഡാഷ് ചെയ്ത സർക്കിൾ ഒന്നിൽ കൂടുതൽ രാസപ്രവർത്തനങ്ങൾ നടക്കുന്ന മെറ്റാബോലൈറ്റായ ഒരു നോഡിനെ നമുക്ക് ഇപ്പോൾ നിർവചിക്കാം അതിനാൽ ഈ ശൃംഖലയിൽ മൂന്ന് തത്ത്വ നോഡുകൾ അല്ലെങ്കിൽ ബ്രാഞ്ച് പോയിന്റുകളുണ്ട് G6Pൽ ഒന്നിലധികം രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു രണ്ടാമത്തെ രാസപ്രവർത്തനം പിഇപി PEP ഇവിടെ ഓക്സലോഅസെറ്റിക് ആസിഡ് ആയി മാറുന്നു ഇവിടെ പൈറുവേറ്റ് അത് ഓക്സലോഅസെറ്റിക് ആസിഡിലേക്കും എൽ ലൈസിനിലേക്കും പോകുന്നു അതിനാൽ ഇവയാണ് ഇവിടത്തെ 3 ബ്രാഞ്ച് പോയിന്റുകൾ നോഡൽ കാർക്കശ്യ വിശകലനം നടത്താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവ ഇവയാണ് ആവശ്യമുള്ള ഒരു ശാഖയിലൂടെ ഫ്ലക്സ് മുൻഗണന വർദ്ധിപ്പിക്കുന്നതിന് കൃത്രിമത്വത്തിനുള്ള സാധ്യത നോഡുകൾ നമ്മൾക്ക് നൽകുന്നു ഫ്ലക്സ് ഇവിടെ എൽ ലൈസിനിലേക്ക് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഇത് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഫ്ലക്സ് കൂടുതൽ ഉണ്ടാക്കുന്നതിന് ചില വഴികളിലൂടെ ഇവിടത്തെ ഫ്ലക്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതാണ് എൽ ലൈസിൻ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ പോകുന്നത് ശരിയല്ലേ അതിനാൽ ബ്രാഞ്ച് പോയിന്റുകളായ ഈ നോഡുകളിലേക്ക് നമ്മൾ നോക്കുന്നത് അതുകൊണ്ടാണ് അതിനാൽ ഔപചാരികമായി പറഞ്ഞാൽ ഈ പദാവലിയിൽ M 1 മെറ്റാബോലൈറ്റ് J1J2J3 നിരക്കുകളുമായി 3 രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാവുകയോ അല്ലെങ്കിൽ J1J2J3 എന്നീ ഫ്ലക്സുകൾക്ക് വിധേയമാവുകയോ ചെയ്താൽ നിങ്ങൾക്ക് XYZ എന്നിവ കിട്ടും Y ഇവിടെ ആവശ്യമുള്ള ഉൽപ്പന്നമാണെന്ന് J 2 നെ J 1 J 3 എന്നിവയിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിനാൽ വിഭജന അനുപാതം എന്ന് വിളിക്കപ്പെടുന്നു ഇത് ആവശ്യമുള്ള ശാഖയിലൂടെയുള്ള ഫ്ലക്സ് ആണ് എല്ലാ ശാഖകളിലൂടെയും ഫ്ലക്സുകളുടെ ആകെത്തുക കൊണ്ട് ഹരിക്കുന്നു അതാണ് വിഭജന അനുപാതം ഈ സാഹചര്യത്തിൽ J 1 J 2 J 3 എന്നിവയുടെ ആകെത്തുക കൊണ്ട് ഇതിനെ Js എന്ന് എഴുതാം അതിനാൽJ2 ഹരിക്കണം J1 അധികം J2 അധികം J3 ഇതാണ് വിഭജന അനുപാതം ഇത് നല്ലതാണ് പക്ഷേ നമുക്ക് ആവശ്യമുള്ളതിന്റെ പ്രധാന കാരണം എന്തുകൊണ്ടാണ് ഇത് അത്ര എളുപ്പമല്ലാത്തത് നോഡിന്റെ സ്വഭാവം കാരണം ഇഷ്ടാനുസരണം ഫ്ലക്സ് മാറ്റാൻ കഴിയുന്നില്ലേ എല്ലാ നോഡുകളിലും ഈ ബ്രാഞ്ചിലൂടെ കൂടുതൽ കാർബൺ എടുക്കുമെന്ന് നിങ്ങൾക്ക് പറയാനാവില്ല മാത്രമല്ല ഈ ശാഖയുടെ ഉത്തരവാദിത്തമുള്ള എൻസൈം മുറിച്ചുമാറ്റുന്നതിലൂടെ അത് സംഭവിക്കില്ല അത് എന്താണെന്ന് ഞാൻ വളരെ ചുരുക്കമായി പറയാം രണ്ട് തരത്തിലുള്ള നോഡുകൾ സാധ്യമാണ് ഇത് ഒരു കർക്കശമായ നോഡ് അല്ലെങ്കിൽ വഴക്കമുള്ള നോഡ് ആകാം അത് ചെയ്യുന്നതിന് നമുക്ക് ഈ ഉദാഹരണം പരിഗണിക്കാം Aയിലേക്ക് പോകുന്ന എസ് A Bയിലീക്കും Cയിലേക്കും പോകുന്നു C Dയിലേക്കും E യിലേക്കും പോകുന്നു ഇവ സാധാരണവൽക്കരിച്ച ഫ്ലക്സുകളാണ് Sൽ നിന്നും Aയിലേക്ക് 100 Aൽ നിന്നും ബിയിൽ50 ഉം A യിൽ നിന്നും Cക്കു 50 ഉം Cയിൽ നിന്നും D 25 ഉം ആണ് C മുതൽ E വരെ ചില യൂണിറ്റുകളിൽ 25 ആണ് സമയത്തിന് മില്ലിമോളിൽ അതിനാൽ ഈ പ്രത്യേക നെറ്റ്വർക്കിലേക്ക് ഒന്നും ചെയ്യാത്തപ്പോൾ ഇത് ബ്രാഞ്ചിംഗ് ആണ് ചില ജനിതക പ്രകാരം നമുക്ക് എൻസൈമുകൾ മുറിച്ചുമാറ്റാൻ കഴിയുമെങ്കിൽ ഈ ശാഖ മുറിച്ചുമാറ്റാം ഈ ശാഖയും ഛേദിക്കപ്പെടും നമുക്ക് പറയാം അപ്പോൾ ഈ C D പരിവർത്തനം നടക്കില്ല അങ്ങനെയാണെങ്കിൽ നിരീക്ഷിച്ച ഫ്ലക്സുകൾ അത് ശരിക്കും നിരീക്ഷിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പറയാം ഈ 2 എണ്ണം ഒഴിവാക്കിയാൽ ഫ്ലക്സുകൾ ഇതുപോലെയായി മാറുന്നു ഇവ മുറിക്കുമ്പോൾ 100 ഇവിടെ പൂജ്യമായിത്തീരുന്നു പക്ഷേ ഇത് ഇവിടെ 100 ആണ് അതേസമയം ഇത് മുറിക്കുന്നതിലൂടെ ഈ രണ്ട് ഫ്ലക്സുകളും പൂജ്യമായിത്തീർന്നു ഇത് സംഭവിച്ചുവെന്ന് നമുക്ക് പറയാം ഇത് നിരീക്ഷിക്കുന്നത് എളുപ്പമല്ല പക്ഷേ A നോഡിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംഭവിച്ചുവെന്ന് നമുക്ക് പറയാം ഒരു ശാഖയിലൂടെ മുഴുവൻ ഫ്ലക്സും വഴിതിരിച്ചുവിടാൻ കഴിയും ഇത് ആവശ്യമുള്ള ശാഖയാണെന്ന് നമുക്ക് പറയാം ഈ ശാഖ മുറിക്കുന്നതിലൂടെ ഈ ശാഖയിലൂടെ എല്ലാ ഫ്ലക്സുകളും വഴിതിരിച്ചുവിടാൻ നമ്മൾ കഴിയും അതിനാൽ ഇതൊരു വഴക്കമുള്ള നോഡാണ് അതേസമയം C നോഡിൽ നമ്മൾ ഇത് മുറിച്ചതിനാൽ ഇതും ഛേദിക്കപ്പെട്ടു ഞങ്ങൾ ഇത് ഛേദിച്ചുകളയാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാൽ ഞങ്ങൾ ഈ പാത വെട്ടിമാറ്റിയതുകൊണ്ട് ഇതും ഛേദിക്കപ്പെട്ടു അത്തരമൊരു നോഡിനെ ഒരു കർക്കശമായ നോഡ് എന്ന് വിളിക്കുന്നു മറ്റ് ബ്രാഞ്ച് പോയിന്റ് മുറിച്ചുമാറ്റിയാൽ ഒരു ബ്രാഞ്ച് പോയിന്റിലൂടെ മുൻഗണനാക്രമത്തിൽ ഫ്ലക്സ് വർദ്ധിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനാവില്ല അത് ഒരു കർക്കശമായ നോഡാണ് അതിനാൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് നമ്മൾ വഴക്കമുള്ള നോഡുകൾക്കായി നോക്കേണ്ടതുണ്ട് കർശനമായ നോഡുകൾ നമ്മളെ സഹായിക്കില്ല അതിനാൽ പല കാരണങ്ങളാൽ ബുദ്ധിമുട്ട് ഉണ്ടാകാം ഉദാഹരണത്തിന് ഏതെങ്കിലും വിധത്തിൽ ഉൽപാദിപ്പിക്കുന്ന ശാഖയ D ആവശ്യമായി വരാം ചില ഉപാപചയ മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ചില ജനിതകമാർഗ്ഗങ്ങൾ ഇതിന് കാരണമാകാം ഒരുപക്ഷേ ഒരു ഫീഡ്ബാക്ക് ലൂപ്പിലൂടെ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും അതിനാൽ നിങ്ങൾ ഇത് മുറിക്കുകയാണെങ്കിൽ ഇതും ഛേദിക്കപ്പെടും അതിനാൽ ഈ 3 ബ്രാഞ്ച് പോയിന്റുകൾ കാണിച്ചിരിക്കുന്നു ജി 6 പി പി ഇ പി പൈറുവേറ്റ് ഈ 3 നോഡുകൾ ഈ 2 നോഡുകളായ ജി 6 പി പൈറുവേറ്റ് എന്നിവ വഴക്കമുള്ളതാണെന്ന് പരീക്ഷണങ്ങളിലൂടെയും ഫ്ലക്സ് വിശകലനത്തിലൂടെയും കണ്ടെത്തി മറ്റ് ശാഖകൾ മുറിച്ചുകൊണ്ട് ആവശ്യമുള്ള ബ്രാഞ്ചിലൂടെ ഫ്ലക്സ് തിരിച്ചു വിടാൻ കഴിയും അതേസമയം പി ഇ പി കർക്കശമാണ് മികച്ച ലൈസിൻ ഉൽപാദനത്തിനായി കാഠിന്യത്തെ മറികടക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് കഴിയും അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ P E P OA ലേക്ക് പോകുന്നു ഇതാണ് ആവശ്യമുള്ള ശാഖ P E P കാർബോക്സിലേസ് എൻസൈമാണ് ഇത് ചെയ്യുന്നത് സാധാരണ ജീവികളിൽ നിന്നുള്ള പി ഇ പി കാർബോക്സൈലേസ് ഒരു കർക്കശമായ നോഡിലേക്ക് നയിക്കുന്നു അതേസമയം സ്യൂഡോമോണസിൽ നിന്നുള്ള പി ഇ പി കാർബോക്സിലേസ് എൻസൈം സഹായകരമാണ് ഇത് കാഠിന്യത്തെ തകർക്കാൻ സഹായിക്കുന്നു അതിനാൽ സമീപനം സ്യൂഡോമോണസ് പി ഇ പി കാർബോക്സിലേസ് എടുക്കുകയും കോറിനെബാക്ടീരിയം ഗ്ലൂട്ടാമിക്കത്തിൽ ചെയ്യുക ഇത് ഈ നോഡിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുകയും അതുവഴി ലൈസിൻ ഉൽപാദനം ഏകദേശം 3 മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്തു അല്ലേ അതിനാൽ അവസാന ഭാഗത്ത് നമ്മൾ യഥാർത്ഥത്തിൽ മറ്റേതെങ്കിലും ജീവികളിൽ നിന്ന് ജീൻ എടുക്കുകയും ഹോസ്റ്റ് ജീവിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുക ഇതാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന പുനർസംയോജന ഡിഎൻഎ സാങ്കേതികവിദ്യ ഇത് കൂടുതൽ ഉൽപാദിപ്പിക്കുന്നതിന് കോശത്തിൽ മാറ്റം വരുത്തുന്നതിനുള്ള ഒരു മാർഗമാണ് അതിനാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു അവിടെ രണ്ട് പ്രധാന വശങ്ങൾ ഒന്ന് കോശത്തിനെ വിശദമായി നോക്കുന്നു തുടർന്ന് കോശത്തെ പരിഷ്ക്കരിക്കുന്നത് ഈ സാഹചര്യത്തിൽ എൽ ലൈസിൻ ഉൽപ്പന്നത്തിന്റെ അളവ് മെച്ചപ്പെടുത്തുന്നതായി നോക്കുന്നു ഇൻസുലിൻ ഉൽപാദനത്തിനായി ആർഡിഎൻഎ വളരെയധികം ഉപയോഗിച്ചു Refer Slide Time 5054 ഒരു ബാക്ടീരിയ ഉപയോഗിച്ചാണ് ഇൻസുലിൻ നിർമ്മിക്കുന്നത് ഇൻസുലിൻ ജീൻ എടുക്കുകയും ബാക്ടീരിയയിൽ പ്രകടിപ്പിക്കുകയും ഇൻസുലിൻ ഉത്പാദിപ്പിക്കുകയും ചെയ്തു അവർക്ക് വലിയ അളവിൽ ഇൻസുലിൻ ഉൽപാദിപ്പിക്കാനും വിലയും ലഭ്യതയും രോഗാവസ്ഥയും ഗണ്യമായി കുറയ്ക്കാനുമുള്ള വഴി അതായിരുന്നു ഒരു പടി കൂടി കടന്നാൽ ഇത് മാറുകയാണ് ആർഡിഎൻഎ സാങ്കേതികവിദ്യ ഡിഎൻഎ എടുത്ത് മറ്റൊരു ജീവിയിലേക്ക് മാറ്റുന്നു ഒന്നുകൂടി കടന്ന് മുഴുവൻ കോശങ്ങളും മാറ്റാം അതിനുള്ള ഉദാഹരണമാണ് ഹൈബ്രിഡോമ കാൻസർ എന്നേക്കും വളരാൻ കഴിയുന്ന ഒരു കോശം നിങ്ങൾ എടുക്കുന്നു ഒരു പ്രത്യേക തരം ആന്റിബോഡി ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന ഒരു കോശം നിങ്ങൾ എടുക്കുകയും അവയെ ഒന്നിച്ച് ചേർക്കുകയും ചെയ്യുന്നു അത്തരം ഒരു ആന്റിബോഡി മാത്രം ഉൽപാദിപ്പിക്കുന്ന ഒരു കോശം നിങ്ങൾക്ക് ലഭിക്കും ഒപ്പം എന്നേക്കും വളരാനും കഴിയും അത് കോശം പൂർണ്ണമായും മാറ്റുന്നു നിങ്ങൾ അവയെ ബയോറിയാക്ടറുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആവശ്യമായ ഉൽപ്പന്നത്തിന്റെ ഉത്പാദനം ലഭിക്കും ബയോറിയാക്ടറുകളിൽ നിന്നുള്ള മോണോക്ലോണൽ ആന്റിബോഡി ആയതിനാൽ ചുരുക്കത്തിൽ മൊഡ്യൂൾ 5 നോക്കുകയാണെങ്കിൽ അടുത്ത പ്രഭാഷണത്തിൽ മുഴുവൻ കോഴ്സും നമ്മൾ സംഗ്രഹിക്കും മൊഡ്യൂൾ 5 ൽ കോശങ്ങൾ സ്വയം പരിഗണിച്ച് നമ്മൾ ആരംഭിച്ചു ഉൽപ്പന്നം നിർമ്മിക്കുന്ന യഥാർത്ഥ ഫാക്ടറികൾ കോശത്തെ ഒരു കറുത്ത പെട്ടിയായി പരിഗണിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കുറച്ച് ഇൻപുട്ട് ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അത് ചെയ്യുന്നതിനുള്ള ഒരു മാർഗ്ഗം സ്റ്റോകിയോമെട്രി ബയോറിയാക്ഷൻസ് സ്റ്റോകിയോമെട്രി റിഡക്റ്റൻസ് ആശയത്തിൻറെ അളവ് എന്നിവ ഒരു പ്രധാന ആശയമാണ് പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു ജാലകം തുറന്ന് നോക്കും കോശ സ്റ്റാറ്റസ് സൂചകങ്ങൾ മെറ്റബോളിക് സ്റ്റാറ്റസ് സൂചകങ്ങൾ ഊർജ്ജ നില സൂചകങ്ങളായ റെഡോക്സ് അനുപാതം എനർജി റേഷ്യോ ഇൻട്രാസെല്ലുലാർ പിഎച്ച് എന്നിവയാണ് ചില വിൻഡോകൾ ഈ മൂന്ന് ഉദാഹരണങ്ങളാണ് മറ്റുള്ളവയും ഉണ്ടാകാം എന്നിട്ട് പോയി കോശത്തിനുള്ളിൽ നോക്കും മെറ്റബോളിക് ഫ്ലക്സ് വിശകലനം നമ്മൾ ഇവിടെ വിശദമായി വിവരിച്ച രീതികളിലൂടെ നമ്മൾ ചെയ്തത് അതാണ് ഇവിടെ ചില വിശദാംശങ്ങൾ എല്ലാ വിശദാംശങ്ങളും ഇല്ല തുടർന്ന് മെറ്റബോളിക് ഫ്ലക്സ് വിശകലനം നൽകിയ ഇൻപുട്ടിനെ അടിസ്ഥാനമാക്കി ആർഡിഎൻഎ സാങ്കേതികവിദ്യയിലൂടെ ജനിതക യന്ത്രങ്ങളുടെ നേരിട്ടുള്ള മാറ്റം വരുത്താനും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്താനും നമ്മൾക്ക് കഴിയും ഉദാഹരണത്തിന് എൽ ലൈസിൻ 3 മടങ്ങ് കൂടുതൽ തുടർന്ന് നമ്മൾ പറഞ്ഞു മോണോക്ലോണൽ ആന്റിബോഡികൾ അല്ലെങ്കിൽ താൽപ്പര്യമുള്ള മറ്റേതെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉൽപാദിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് രണ്ട് തരം കോശങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് കോശം മാറ്റാൻ കഴിയും എന്ന് ഇതോടെ നമ്മൾ മൊഡ്യൂൾ 5 പൂർത്തിയാക്കുന്നു അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ കോഴ്സിൽ ചെയ്തതെല്ലാം ചുരുക്കത്തിൽ സംഗ്രഹിക്കും അടുത്ത പ്രഭാഷണത്തിൽ കാണാം